കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ അവലോകനം I ഹലോ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന നമ്മളുടെ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സിലേക്ക് സ്വാഗതം കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനെക്കുറിച്ചുള്ള മൊഡ്യൂൾ നമ്പർ 7 ആണ് നമ്മൾ നോക്കുന്നത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ പ്രധാനമായും കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനെക്കുറിച്ചും അവ എങ്ങനെ ഉത്ഭവിച്ചുവെന്നും സാധാരണയായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എന്താണെന്നും നമ്മൾ നോക്കുന്നു ഓട്ടോകാഡിനെക്കുറിച്ചും സോളിഡ് വർക്കുകളെക്കുറിച്ച് വിശദമായും നമ്മൾ നോക്കും കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന മൊഡ്യൂളുകൾ ഇവയാണ് ചുരുക്കവിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉപയോഗിച്ച അളവുകൾ കോമ്പസ് ഡിവൈഡറുകൾ സ്കെയിലുകൾ പ്പ്രൊട്രാക്റ്റർ മറ്റ് വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ച് ഷീറ്റുകളിൽ സാങ്കേതിക ഡ്രോയിംഗ് എങ്ങനെ വരയ്ക്കാമെന്ന് നമ്മൾ ഇതുവരെ പഠിച്ചു ഐസോമെട്രിക് വ്യൂവിൽ ദ്വിമാന ഒരുപക്ഷേ ത്രിമാന വസ്തുക്കൾ നിർമ്മിക്കുന്നതും നമ്മൾ നോക്കി ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് അത്തരം ത്രിമാന വസ്തുക്കൾ അല്ലെങ്കിൽ ഒരുപക്ഷേ ത്രിമാന വസ്തുക്കളുടെ കട്ട് സെക്ഷണൽ വ്യൂ എങ്ങനെ നിർമ്മിക്കാൻ എന്ന് കാണാം ആദ്യം ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനെക്കുറിച്ചുള്ള ചില അവലോകനം നമ്മൾ പരിശോധിക്കും അതിനാൽ ആധുനിക കാലത്തെ എഞ്ചിനീയറിംഗ് ഡിസൈനുകളിൽ എല്ലായ്പ്പോഴും ത്രിമാന വസ്തുക്കളും ത്രിമാന സോളിഡ് മോഡലിംഗും ഉൾപ്പെടുന്നു ഉദാഹരണത്തിന് ഇവിടെ ഇവയാണ് വ്യൂകൾ പക്ഷേ സാധാരണയായി നമ്മൾ ഇത് ഷീറ്റിൽ നിർമ്മിക്കുന്നു നമ്മളുടെ ഡ്രോയിംഗ് ഷീറ്റുകൾ ഒരുപക്ഷേ വലതുവശത്തെ വ്യൂകൾ ഇടത് വശത്തെ വ്യൂകൾ ടോപ് വ്യൂ ഫ്രണ്ട് വ്യൂ മുതലായവ നമ്മൾ നിർമ്മിക്കും ത്രീഡിയിൽ ഒരു വസ്തു എങ്ങനെ കാണപ്പെടുന്നുവെന്ന് സങ്കൽപ്പിക്കാൻ ശ്രമിക്കുക ഐസോമെട്രിക് വ്യൂവിൽ അത് പ്രതിനിധീകരിക്കാൻ ശ്രമിക്കുക ഈ കമ്പ്യൂട്ടേഷണൽ ഗ്രാഫിക്സിന്റെ പ്രയോജനം അവ മനോഹരമായി കാണപ്പെടുന്നു എന്നതാണ് മാത്രമല്ല നമുക്ക് എല്ലായ്പ്പോഴും ഉപയോഗിക്കാൻ കഴിയുന്ന കൃത്യമായ അളവുകളിൽ നിങ്ങൾ സ്കെച്ചുകൾ വരയ്ക്കുമ്പോഴെല്ലാം ഏറ്റവും കുറഞ്ഞ അളവുകളെ ഉണ്ടായിരിക്കു അതേസമയം കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ നിങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കും എന്നിരുന്നാലും ഷേഡുള്ള ഭാഗം ശോഭയുള്ള ഇളം നിറങ്ങൾ ഇരുണ്ട നിറങ്ങൾ എന്നിവ കണ്ണുകൾക്ക് നല്ല ആകർഷണം നൽകുന്നു വസ്തുവിന്റെ കൃത്യമായതും സ്പഷ്ടമായതുമായ വിവരണമാണ് യഥാർത്ഥ ശക്തി കൂടാതെ ആ വിവരങ്ങളെല്ലാം നമുക്ക് കമ്പ്യൂട്ടറിൽ സംഭരിക്കാൻ കഴിയും 10 വർഷത്തിനുശേഷവും ഒരാൾക്ക് ആ വിവരങ്ങൾ വീണ്ടെടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയും അതേസമയം ഷീറ്റുകളും നമ്മൾ സ്വമേധയാ ചെയ്യുന്ന മറ്റ് കാര്യങ്ങൾക്കും കാലാവധിയുണ്ട് കൂടാതെ ആ വിവരം മറ്റുള്ളവരുമായി പങ്കിടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് വിതരണ ശൃംഖലയ്ക്കും സാധ്യമാണ് അതിനാൽ സാങ്കേതിക ഡ്രോയിംഗുകൾ ഒരിടത്ത് തയ്യാറാക്കുകയും അത് വ്യത്യസ്ത ആളുകൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യും കൂടാതെ വിതരണ ശൃംഖലയിലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വിവരങ്ങൾ കൈമാറുന്നതിനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗമാണിത് സാധാരണയായി ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ ഡിസൈൻ ആശയങ്ങളുടെ ദൃശ്യവൽക്കരണത്തിനുള്ള ഉപകരണമായി ഗ്രാഫിക്സിനെ ഫലപ്രദമായ ഉപയോഗിക്കാം നമ്മൾ ആദ്യം ദ്വിമാന ഷീറ്റിൽ നിർമ്മിക്കാൻ ശ്രമിക്കുന്നു അത് വ്യാഖ്യാനിക്കുകയും അവിടെ നിന്ന് ഒടുവിൽ ആ ത്രിമാന വസ്തുക്കൾ നിർമ്മിക്കുകയും ചെയ്യുന്നു ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ മറ്റൊരു നേട്ടം ഒരു പ്രോട്ടോടൈപ്പ് വേഗത്തിൽ തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഡ്രോയിംഗുകൾ ഉപയോഗിക്കുന്നത് വളരെ എളുപ്പമാണ് ഈ ദിവസങ്ങളിൽ ആളുകൾ ത്രീ ഡി യുമായി പോകുന്നു അതിൻ്റെ മുന്നേറ്റം ആണ് ഫോർ ഡി പ്രിന്റിംഗ് ത്രീ ഡി പ്രിന്റിംഗിൽ നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് നൽകാൻ കഴിയുമെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ പൂർണ്ണ രൂപകൽപ്പന ആ വസ്തുവിനെ വളരെ ഫലപ്രദമായി അച്ചടിക്കാൻ യന്ത്രത്തിന് കഴിയും അതിനാൽ വളരെ പെട്ടെന്നുള്ള പ്രോട്ടോടൈപ്പ് തയ്യാറാക്കാൻ ഒരാൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഓട്ടോകാഡ് സോളിഡ് വർക്ക്സ് പോലുള്ള സാധാരണ സോഫ്റ്റ്വെയർ ക്യാറ്റിയ പോലുള്ള മറ്റ് സോഫ്റ്റ്വെയറുകളും ഉണ്ട് ഇവയാണ് ഒരാൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നത് ഇതുവരെ ടൂ ഡി ഡ്രോയിംഗുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു പ്രധാനമായും ആ ടൂ ഡി ഡ്രോയിംഗുകൾ ചലനാത്മകത മനസിലാക്കുന്നതിനും സർക്യൂട്ട് ഘടകങ്ങളുടെ സ്ഥാനം പരിശോധിക്കുന്നതിനും അല്ലെങ്കിൽ ബ്ലൂപ്രിന്റുകളുടെ പോയിന്റിനും സഹായകമാണ് ഇവ നമ്മൾക്ക് എളുപ്പമുള്ള വിവരങ്ങൾ നൽകാനുള്ള ഡോക്യുമെന്റേഷൻ മാത്രമാണ് വിശദമായ വിവരങ്ങൾ ത്രിമാന മോഡലിംഗിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കൂ പ്രത്യേകിച്ചും ത്രിമാന മോഡലിംഗ് മൂന്ന് വ്യത്യസ്ത ഇനങ്ങൾ ഉൾക്കൊള്ളുന്നു ഒന്ന് വയർഫ്രെയിം മോഡൽ മറ്റൊന്ന് സർഫസ് മോഡൽ മൂന്നാമത്തേത് സോളിഡ് മോഡൽ ഈ സോഫ്റ്റ്വെയർ നോക്കുന്നതിന് മുമ്പ് ഈ സാങ്കേതിക ഡ്രോയിംഗിന്റെ ചില കീവേഡുകൾ ഓർമ്മിക്കാൻ ഒരു അവലോകനം എല്ലായ്പ്പോഴും നമ്മളെ സഹായിക്കുന്നു ആ ആവശ്യത്തിനായി കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ ഈ ചുരുക്കവിവരണം നമ്മൾ പറയുന്നു സൃഷ്ടിയുടെ എളുപ്പ വിശകലനത്തിനായി ഇൻപുട്ട് ജ്യാമിതി ഡാറ്റയായി ആദ്യത്തെ വയർഫ്രെയിം മോഡൽ ഉപയോഗിക്കുന്നു ഇവിടെ പാലത്തിന്റെ ഒരു ചിത്രം കാണിച്ചിരിക്കുന്നു നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നോക്കിയാൽ അതിൽ നിരവധി ലൈൻ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു അത് ഒരു ഏകദേശ രൂപ രേഖ പോലെ കാണപ്പെടുന്നു അതിനാൽ ഒബ്ജക്റ്റിന്റെ ചട്ടക്കൂട് നമുക്ക് എല്ലായ്പ്പോഴും ഈ വയർഫ്രെയിമിൽ നിന്ന് ലഭിക്കുന്നു ഒരു വസ്തുവിനെ രൂപകൽപ്പന ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ഏകദേശ രൂപ രേഖ നൽകേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഈ സിവിൽ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് പ്രശ്നം കെമിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾ അവ പ്രധാനമായും പ്രവർത്തിക്കുന്നത് കണ്ടിന്നുവം മെക്കാനിക്സ് തത്വങ്ങളിലാണ് അതിൽ ഫീൽഡുകൾ ഉണ്ടാകും സ്ട്രെസ്സ് നെകുറിച്ചുള്ള വിവരങ്ങൾ സ്ട്രയിൻ താപനില ഒരുപക്ഷേ കറൻറ്നെക്കുറിച്ചും മറ്റ് പല കാര്യങ്ങളെക്കുറിച്ചും ഉള്ള വിവരങ്ങൾ നമ്മൾ സാധാരണയായി ഫീൽഡുകൾ പോലെ പ്രതിനിധീകരിക്കുന്നു അതായത് പദ്ധതിയുടെ ഓരോ ഘട്ടത്തിലും ആ പ്രത്യേക വിവരങ്ങൾ തിരിച്ചറിയാൻ നമ്മൾക്കാകും ആ ആവശ്യത്തിനായി സാധാരണയായി നമ്മൾ പ്രോഗ്രാമുകൾ എഴുതുമ്പോഴോ ഭാഗിക ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ പരിഹരിക്കുമ്പോഴോ അവശ്യ ഭൌതികശാസ്ത്ര പ്രശ്നങ്ങൾ മനസിലാക്കാൻ നമ്മൾ ഒരു വയർഫ്രെയിം മാതൃകയിൽ ഒബ്ജക്റ്റ് നൽകേണ്ടതുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു സെൽ ഫോൺ ഉള്ളതുപോലെ അതിൽ ഒരു ചിപ്പ് പ്രോസസർ ഉണ്ടാകാം ഇത് ചുറ്റുപാടുകളുമായി നിരന്തരം ഊർജ്ജം കൈമാറ്റം ചെയ്യുന്നു ഇത് അമിതമായി ചൂടാക്കിയേക്കാം ഇപ്പോൾ അതിന്റെ താപനില എന്തായിരിക്കാം അതിനാൽ ചിലതരം ബൌൻഡറി കണ്ടിഷൻസ് ഉണ്ട് ഇപ്പോൾ അത്തരം പ്രശ്നം മനസിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നാമതായി കൃത്യമായി ചിപ്പ് എവിടെയാണ് അതുപോലെ റെസിസ്റ്റർ ഉള്ളിടത്ത് ഒരു എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് നിർമ്മിക്കുക എന്നതാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റ് ഘടകങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പ്രയോഗിക്കേണ്ട താപനില ഫീൽഡിന്റെ കാര്യത്തിൽ ഏത് തരത്തിലുള്ള ബൌൻഡറി കണ്ടിഷൻസ് ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ അത് ഒരു പ്രത്യേക വസ്തുവിൽ നിർമ്മിക്കണം കൂടാതെ ഓരോ ഘട്ടത്തിലും നമ്മൾ അത് കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കേണ്ടതുണ്ട് അതിനായി ഈ വയർഫ്രെയിം ഡിസൈനുകളോ ഡ്രോയിംഗുകളോ സഹായകമാകും മറ്റൊന്ന് സർഫസ് മോഡലുകളാണ് ഈ സർഫസ് മോഡലുകൾ പ്രധാനമായും ഫീൽഡുകളുടെ ദൃശ്യവൽക്കരണത്തിനായി ഉപയോഗിക്കുന്നു മാത്രമല്ല അവ ആ വസ്തുവിന്റെ മറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും വരികൾ നീക്കംചെയ്യുകയും ചെയ്യുന്നു ഒരു ഒബ്ജക്റ്റ് ദൃശ്യവൽക്കരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ സർഫസിലെ താപനില വിതരണം പകരം ആ പോയിന്റുകളിലെ സമവാക്യങ്ങൾ പരിഹരിക്കുന്ന ഒരു വയർഫ്രെയിം മോഡൽ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ നിങ്ങളുടെ സർഫസ് വിവരങ്ങൾ താപനില വിതരണത്തിന്റെ വർണ്ണാഭമായ കോണ്ടൂർ അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്ന വൈദ്യുതകാന്തികക്ഷേത്രം ഈ സർഫസ് മോഡലുകൾക്ക് മികച്ച ആകർഷണം നൽകുന്നു ഒരു പോയിൻ്റിൽ പ്രത്യേക തലങ്ങളിൽ വിവരങ്ങൾ ലഭ്യമാണെങ്കിലും രണ്ട് പോയിന്റുകൾ ചിലപ്പോ നൂറുകണക്കിന് പോയിന്റുകളായിരിക്കാം പക്ഷേ പോയിന്റ് മുതൽ പോയിന്റ് വരെ സംഭവിക്കേണ്ട ഒരു പുനർനിർമ്മാണം ഉണ്ടായിരിക്കണം അതിനാൽ ഏതെങ്കിലും സർഫസ് മോഡലിംഗ് ആശയത്തിൽ പ്രത്യേക വിവരങ്ങളിൽ നിന്ന് അത്തരം ഇന്റർപോളേഷൻ കാണുന്നു ഉദാഹരണത്തിന് ഈ കാർ ബോഡി നമ്മൾ നോക്കുന്നതെന്തും അത് കണ്ണുകൾക്ക് മനോഹരമായി കാണപ്പെടുന്നു പക്ഷേ വർണ്ണ തീവ്രതയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ വസ്തുവിന്റെ വക്രതയെക്കുറിച്ചോ ഉള്ള അവശ്യ വിവരങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേക വിവരങ്ങളിൽ ലഭ്യമാണ് ആ പ്രത്യേക വിവരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ റെൻഡറിംഗ് ടെക്നിക്കുകളുമായി പോകുന്നു ആകർഷകമായ ഒരു ഒബ്ജക്റ്റ് നിർമ്മിക്കാൻ ശ്രമിക്കുക ഇതാണ് സർഫസ് മോഡലിംഗ് എന്ന് നമ്മൾ വിളിക്കുന്ന പ്രക്രിയ ഈ സർഫസ് മോഡലുകൾക്ക് യാതൊരു കനവുമില്ല അവ കനം വളരെ ചെറുതാണ് അവയുടെ നീളം വീതി ഈ ഉയരം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രാധാന്യമർഹിക്കുന്നു പക്ഷേ കനം അല്ല നമുക്ക് അത്തരം വസ്തുക്കൾ ഉണ്ടെങ്കിൽ സർഫസ് എന്ന് വിളിക്കുന്നു നമ്മൾ സർഫസ് മോഡലിംഗ് ഉപയോഗിച്ച് അത് നിർമ്മിക്കുന്നു കനം ഉള്ള ചില വസ്തുക്കൾ ഉണ്ട് മറ്റ് അളവുകളും പ്രധാനമാണ് ഉദാഹരണത്തിന് ഒരു ജെറ്റ് എഞ്ചിനുള്ള ഗ്യാസ് ടർബൈൻ ഉണ്ട് നിങ്ങൾക്ക് ടർബൈൻ ബ്ലേഡുകൾ കംപ്രസ്സറുകൾ നോസിലുകൾ എന്നിവ പോലുള്ള എന്തെങ്കിലും ഉണ്ടായിരിക്കാം ചില ഭാഗം സർഫസ് പോലെ ഫാൻ ബ്ലേഡുകൾ പോലെയുള്ളതാണ് ഇവയ്ക്ക് കനം 0 ആണ് പക്ഷേ അവയിൽ ചിലത് നോസിലുകൾ ഒരുപക്ഷേ ആ വസ്തുവിന്റെ ഷാഫ്റ്റ് ഇവ ത്രിമാന കാര്യങ്ങളാണ് അതിനാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സോളിഡ് മോഡലുകൾ എന്ന് വിളിക്കാൻ പോകുകയാണെങ്കിൽ വിശദമായ കാഴ്ച എല്ലാം ത്രിമാനമാണെങ്കിലും കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിൽ അവയെ വയർഫ്രെയിം മോഡലുകൾ സർഫസ് മോഡലുകൾ സോളിഡ് മോഡലുകൾ എന്നിങ്ങനെ തരംതിരിക്കും നിങ്ങൾ സോളിഡ് മോഡലുകളുമായി പോകുന്നുവെങ്കിൽ അതിന് വിപുലമായ അല്ലെങ്കിൽ ഭീമാകാരമായ കമ്പ്യൂട്ടർ മെമ്മറി ആവശ്യമാണ് ഈ പോയിന്റുകളിലെല്ലാം നിങ്ങൾ വിവരങ്ങൾ സൂക്ഷിക്കണം സർഫസ് വയർഫ്രെയിമിനും സോളിഡ് മോഡലുകൾക്കുമിടയിലാണ് അതിനാൽ ഈ വയർഫ്രെയിം മോഡലുകളെക്കുറിച്ച് വിശദമായി നോക്കാം സാധാരണയായി ഏതെങ്കിലും ത്രിമാന ഒബ്ജക്റ്റ് നമ്മൾ അതിനെ വയർഫ്രെയിമുകൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കാൻ പോകുന്നുവെങ്കിൽ അതിനർത്ഥം നമ്മൾ വെർട്ടീസസ് അരികുകൾ എന്നിവ പോലുള്ളവ തിരിച്ചറിയാൻ പോകുന്നു ഉദാഹരണത്തിന് എനിക്ക് ഒരു ക്യൂബിനെ പ്രതിനിധീകരിക്കണമെങ്കിൽ ക്യൂബോയിഡ് വയർഫ്രെയിം മോഡലിൽ എനിക്ക് വേണ്ടത് വെർട്ടീസസ് പോലെയാണ് ഇവയാണ് വെർട്ടീസസ് കൂടാതെ ഈ വെർട്ടീസസ് യോജിപ്പിച്ചിരിക്കുന്നതും ബന്ധിപ്പിച്ചിരിക്കുന്നതും ആയ ഡാറ്റാ ഘടന പോലുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾക്ക് ആവശ്യമാണ് ആ വിവരങ്ങൾ നമ്മൾക്കറിയാമെങ്കിൽ ഈ അരികുകളാൽ ബന്ധിപ്പിക്കപ്പെടേണ്ട ഇവ രണ്ടും പ്രതിനിധീകരിക്കാൻ നമ്മൾക്ക് കഴിയും ഇവ ആ അരികുകളാൽ ബന്ധിപ്പിക്കപ്പെടേണ്ടവയാണ് ഇവ ആ അരികുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ശരിയായ ഡാറ്റാ നിർവഹണം ഉണ്ട് അതിനാൽ വയർഫ്രെയിം മോഡലിൽ നമ്മൾ ഇത്തരത്തിലുള്ള മറഞ്ഞിരിക്കുന്ന വരികൾ കാണിക്കുന്നില്ല പക്ഷേ അതിൽ വെർട്ടീസസും ഈ അരികുകളും അടങ്ങിയിരിക്കുന്നു ഏതെങ്കിലും ത്രിമാന ഒബ്ജക്റ്റ് നമ്മൾ പ്രതിനിധീകരിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് ബന്ധിപ്പിക്കുന്നതിന് നമ്മൾ ആവശ്യപ്പെടുന്ന ഏറ്റവും കുറഞ്ഞ വിവരങ്ങളാണിവ ഇപ്പോൾ ഈ നോഡുകൾ ട്രാക്കു ചെയ്യുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ വെർട്ടീസസ് അരികുകൾ മറ്റ് തരത്തിലുള്ള ആകൃതികൾ സമാന പോയിന്റുകൾ നമ്മൾക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങളും നൽകിയേക്കാം ഈ വിവരങ്ങൾ ശ്രദ്ധാപൂർവ്വം ബന്ധിപ്പിക്കാൻ നമ്മൾക്കാവില്ലെങ്കിൽ ഒരുപക്ഷേ ഇത് അവിടേക്ക് പോകാം ഇത് അവിടെ വരുന്നു ഇത് വരുന്നു മാത്രമല്ല ഇത് നമ്മൾക്ക് സങ്കീർണ്ണമായ ഒരു ചിത്രമായിരിക്കും അതിനാൽ നമ്മൾ വയർഫ്രെയിം മോഡലുകൾ ഉപയോഗിക്കുമ്പോൾ ഈ വെർട്ടീസസ് അവയുടെ ലിങ്കുകൾ ക്രമീകരിക്കുന്നു ശ്രേണി ശ്രദ്ധാപൂർവ്വം പാലിക്കേണ്ടതുണ്ട് സാധാരണയായി ഈ വയർഫ്രെയിം മോഡലുകളിൽ വലുപ്പവും ഓറിയന്റേഷനും പോലുള്ള പ്ലെയിനുകളെകുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നു സർഫസ് 40 ഡിഗ്രി 50 ഡിഗ്രി മുതലായവ ഓറിയന്റഡ് ചെയ്യുന്നുണ്ടോ എന്നതുപോലെയുള്ള ഒന്ന് കൂടാതെ ഈ വിവരങ്ങളെല്ലാം ഒരു കൂട്ടം അരികുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ നമ്മൾക്ക് എല്ലായ്പ്പോഴും അരികുകളുണ്ട് ഇതുപോലുള്ള ഒന്ന് ഒരു അരികാണ് മറ്റേ അഗ്രമാണ് ഇത് മറ്റൊരു അരികാണ് അതിനാൽ ഒരു കൂട്ടം അരികുകൾ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും ഈ അരികുകൾ സാധാരണയായി പരസ്പരം കൂടിച്ചേർന്ന് അതിനെ ഒരു ത്രിമാന ഒബ്ജക്റ്റ് ആക്കുന്നു സാധാരണയായി ഈ വെർടീസസ് വരികളിലൂടെ മാത്രം ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല അവ വളവുകളിലൂടെയും ബന്ധിപ്പിക്കാൻ കഴിയും ഇവിടെ നമുക്ക് അത്തരമൊരു ഉദാഹരണ സിലിണ്ടർ ഉണ്ട് ഇവയാണ് നമ്മൾ അരികുകളായി നിർവചിക്കുന്നത് അതിനുശേഷം നമുക്ക് ആർക്കുകളും നിർമ്മിക്കാം ഞാൻ സമാനമായ വസ്തുക്കൾ ആവർത്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ഞാൻ ത്രിമാന ആകൃതികൾ നിർമ്മിക്കുന്ന അവസ്ഥയിലായിരിക്കും ഉദാഹരണത്തിന് വളരെ ദൈർഘ്യമേറിയ പൈപ്പ് പോലെയുള്ള ഒന്ന് ലഭിക്കാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നെങ്കിൽ അത്തരത്തിലുള്ള സിലിണ്ടർ മൂലകങ്ങൾ പല വരിയായി ബന്ധിപ്പിച്ചിരിക്കുന്നു നമ്മൾക്ക് ഒരു പൈപ്പ് വളവ് ഉണ്ടെങ്കിൽ ആ സിലിണ്ടർ ഭാഗങ്ങളുടെ ചില ഭാഗം മറ്റ് ചില വളവുകളും കമാനങ്ങളും ഉപയോഗിച്ച് മറ്റ് ചില കാര്യങ്ങൾ ഇത് ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സ്ഥാനത്ത് നമ്മൾ ഉണ്ടാകും മൊത്തത്തിൽ വയർഫ്രെയിം മാതൃകയിൽ എല്ലായ്പ്പോഴും വെർടീസസിൻ്റെ കോർഡിനേറ്റ് മൂല്യങ്ങൾ അടങ്ങിയിരിക്കുന്നു പ്രത്യേക അരികുകളുമായി ബന്ധപ്പെട്ട വെർടീസസ് എന്തൊക്കെയാണ് ഈ അരികുകളിൽ നിന്ന് ഏതെങ്കിലും ഫേസ് രൂപപ്പെടുന്നുണ്ടോ ഇവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ ഈ അരികുകളിലേക്ക് നോക്കുമ്പോൾ ഒരാൾ നിർമ്മിക്കേണ്ട ശ്രദ്ധാപൂർവ്വമായ ഡാറ്റാബേസ് ഘടനകൾ വ്യത്യസ്ത തരത്തിലുള്ള പദ്ധതികൾ അല്ലെങ്കിൽ ഒരുപക്ഷേ ഒരാൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന കോമ്പിനേഷനുകൾ ഉണ്ട് അവയിലൊന്ന് റിലേഷണൽ ഓപ്പറേറ്ററാണ് അവിടെ ഒരു കൂട്ടം ലിസ്റ്റുകളും പിശകുകളും നമ്മൾ സംഭരിക്കാൻ ഉപയോഗിക്കും വെർടെക്സ് പട്ടിക പോലെ വി 1 വി 2 വി 3 വി 4 പോലുള്ള ഒന്ന് എഡ്ജ് പട്ടികയെക്കുറിച്ച് എന്തെങ്കിലും ആ വെർട്ടീസസ് ബന്ധിപ്പിച്ചിരിക്കുന്നതെന്താണ് അതിനാൽ അത് ഒരു അഗ്രമായി മാറുന്നുണ്ടോ ഇവിടെ ഇത് 0 0 1 0 0 0 1 0 0 0 1 ആണെങ്കിലും ഇത് ഒരു ക്യൂബോയിഡ് ആയിരിക്കാം ഇത് കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കുന്നതിന് ആ വെർട്ടീസസ് വിവരങ്ങൾ മാത്രമല്ല ബന്ധിപ്പിച്ചിരിക്കുന്ന രണ്ട് വെർട്ടീസുകളുടെ വിവരങ്ങളും നമ്മൾ സംഭരിക്കേണ്ടതുണ്ട് അതിനാൽ ഇവിടെ നാല് വെർട്ടീസസ്ക്കായി നമ്മൾക്ക് 1 2 3 4 5 6 കോമ്പിനേഷനുകൾ പോലുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട് 4 ൽ നിന്ന് രണ്ട് ജോഡി തമ്മിലുള്ള സംയോജനമാണ് നമ്മൾ നിർമ്മിക്കേണ്ടത് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ അത് പഠിപ്പിക്കുകയോ അതൊരു ക്യൂബോയിഡ് ആണെന്ന് പറയാൻ വേണ്ടി സംഭരിക്കുകയോ ചെയ്യുന്ന രീതിയാണിത് അതുപോലെ വൃക്ഷഘടനകളുണ്ടാകും ഒരാൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒബ്ജക്റ്റ് എന്താണ് ഏതൊക്കെ സർഫസ്കൾ ബന്ധിപ്പിച്ചിരിക്കുന്നു ഓരോ സർഫസിലും എത്ര അരികുകൾ ഉണ്ട് ആ അരികുകളിൽ വെർട്ടീസുകളും ആ വെർടീസസ് എക്സ് വൈ വിവരങ്ങളും എന്തൊക്കെയാണ് അതിനാൽ വിശദമായ ഒരു ശ്രേണിക്രമീകരണ ഘടന അതിനോടൊപ്പം പോകേണ്ടതുണ്ട് അതിനാൽ അവിടെ നിങ്ങളുടെ അടിസ്ഥാന പ്രോഗ്രാമിംഗ് ആശയം ചിത്രത്തിലേക്ക് വരുന്നു ചിലപ്പോൾ ക്ലാസ് നിർവചിക്കുന്നത് ഈ പോയിന്റുകളെ ബന്ധിപ്പിക്കുന്നതിന് ഉപയോഗപ്രദമായ ഒരു ആശയമാണ് കൂടാതെ നിങ്ങൾ ഈ പോയിന്റുകൾ ബന്ധിപ്പിക്കുമ്പോൾ ഒരു നെറ്റ്വർക്കും ഉൾപ്പെടും ഉദാഹരണത്തിന് ഡാറ്റാ പോയിന്ററുകൾ സ്വാഭാവികമായും ചിത്രത്തിലേക്ക് വരുന്നു ഇ 1 ഇ 4 ഇ 6 അരികുകളുള്ള ഒരു സർഫസ് പോലെ അതിനാൽ ഇ 1 നിർമ്മിക്കാൻ നിങ്ങൾ 1 2 പോയിന്റുകൾ ഉപയോഗിച്ചിരിക്കാം അതിനാൽ ഇവ സ്വാഭാവികമായും ഒരു പോയിന്റ് വേരിയബിളായി ബന്ധിപ്പിച്ചിരിക്കുന്നു സാധാരണയായി ഓരോ വെർടെക്സിനും എക്സ് വൈ ഇസഡ് എന്ന 3 കോർഡിനേറ്റുകളാണുള്ളത് ഓരോ അരികും രണ്ട് വെർടീസസ് വെച്ച് അതിർത്തി നിശ്ചയിച്ചിരിക്കുന്നു ഞാൻ എഡ്ജ് പോലെയാണ് പറയുന്നതെങ്കിൽ രണ്ട് അറ്റത്തും ഈ വെർടീസസ് ഉണ്ടായിരിക്കണം സാധാരണയായി ഓരോ വെർടെക്സിലും കുറഞ്ഞത് 3 അരികുകൾ കൂട്ടി മുട്ടണം ഇത് ഒരു വെർടെക്സ് ആണെന്ന് പറയുവാൻ ഒരു അഗ്രം വേണംമറ്റൊരു അഗ്രം വരുന്നു മറ്റൊരു അഗ്രം പോകുന്നു അതുവഴി ഒരു നെറ്റ്വർക്ക് നിർമ്മിക്കാം ഒരു ഫേസ് നിർവചിക്കാൻ പോലും നിങ്ങൾക്ക് 3 അരികുകൾ ആവശ്യമാണ് ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് ഒരു ത്രികോണ ഫേസ് ഉണ്ട് ഇത് ഒന്നാം എഡ്ജ് രണ്ടാം എഡ്ജ് മൂന്നാം എഡ്ജ് ഒരുപക്ഷേ വെർട്ടീസസ് വി 1 വി 2 വി 3 എന്നിവയായിരിക്കാം ഞാൻ പറഞ്ഞതുപോലെ ഈ വയർഫ്രെയിം മോഡലുകൾ ഒരു ത്രിമാന ഒബ്ജക്റ്റിന്റെ താഴ്ന്ന അളവിലുള്ള പ്രാതിനിധ്യമാണ് ഒരു ത്രിമാന ഒബ്ജക്റ്റിനെ പ്രതിനിധീകരിക്കാൻ കഴിയുന്ന ഏറ്റവും ചുരുങ്ങിയ മാർഗ്ഗമാണിത് നിങ്ങൾ ജ്യാമിതി ലോഡു ചെയ്യുമ്പോഴോ ജ്യാമിതി വിശകലനം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ജ്യാമിതിയെ പോസ്റ്റ് പ്രോസസ്സിംഗ് ചെയ്യുമ്പോഴോ നിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല എഞ്ചിനീയറിംഗ് ഡിസൈൻ വീക്ഷണകോണിൽപ്പോലും ഇതിന് അതിന്റെ ഗുണങ്ങളുണ്ട് ഈ വയർഫ്രെയിം മോഡലുകൾ കമ്പ്യൂട്ടറിൽ ലോഡുചെയ്യാനും മായ്ക്കാനും എളുപ്പമാണ് അവ വേഗത്തിലും കാര്യക്ഷമമായും വിവരങ്ങൾ കൈമാറാൻ കഴിയും മാത്രമല്ല നമ്മൾക്ക് എളുപ്പത്തിൽ നിർമ്മിക്കാൻ കഴിയുന്ന ഒന്നിലധികം കാഴ്ചകളും ഉണ്ടാകും നമ്മൾ കാണുന്ന ഏതെങ്കിലും വരികൾ അത് സർഫസ്കളുടെ കൂടിച്ചേരൽ ആയി കണക്കാക്കപ്പെടുന്നു അതിനർത്ഥം സർഫസ്കളെ ബന്ധിപ്പിച്ചിട്ടുള്ളവയെക്കുറിച്ച് നമ്മൾക്ക് ഒരു ധാരണയുണ്ട് ഒബ്ജക്റ്റുകൾ രൂപകൽപ്പന ചെയ്യുന്നത് പോലുള്ള ഏതെങ്കിലും തുടർച്ചയായ വിശകലനത്തിനായി എഞ്ചിനീയറിംഗ് പരിമിത ഘടക വിശകലനത്തിൽ നമ്മൾ വിളിക്കുന്ന ജനപ്രിയ സംഖ്യാ രീതികളിൽ ഒന്ന് ഈ വയർഫ്രെയിം മോഡലുകൾ ഡാറ്റ വിശകലനം ചെയ്യുന്നതിനുള്ള ആരംഭ ഘട്ടമാണ് ഈ ദിവസങ്ങളിൽ പോലും ആളുകൾ കമ്പ്യൂട്ടർ നിയന്ത്രിത യന്ത്രങ്ങൾ സിഎൻസി യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു ഈ വയർ മോഡലുകളുട വിവരങ്ങൾ നേരിട്ട് നൽകാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള യന്ത്രങ്ങൾ അതിനാൽ ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ ടേണിംഗ് മറ്റ് കാര്യങ്ങൾ എന്നിവ എളുപ്പത്തിൽ രൂപീകരിക്കാൻ കഴിയും നമ്മൾ നിർമ്മിക്കാൻ താൽപ്പര്യപ്പെടുന്ന ഏതെങ്കിലും ഉയർന്ന മോഡലുകൾ ഒരു വയർഫ്രെയിമാണ് അതിൻ്റെ അടിസ്ഥാന ഘട്ടം ഏതൊക്കെ അരികുകളാണ് ബന്ധിപ്പിച്ചിരിക്കുന്നതെന്ന് ഈ പട്ടികയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവയ്ക്ക് ചില ദോഷങ്ങളുമുണ്ട് അങ്ങനെയല്ല നമ്മൾ ഏതുതരം ത്രിമാന വസ്തുവാണ് നോക്കുന്നതെന്ന് തിരിച്ചറിയാൻ എളുപ്പമാണ് ഉദാഹരണത്തിന് നമുക്ക് ഇത് നോക്കാം ഈ ഡാറ്റാ പോയിൻറുകൾ മാത്രം ലഭ്യമാണെങ്കിൽ അരികുകൾ പോലെ ബന്ധിപ്പിച്ചിരിക്കുന്ന വെർട്ടീസുകളുടെ കാര്യത്തിൽ പൊരുത്തക്കേട് ഉണ്ടെങ്കിൽ ഇവയാണ് വെർട്ടീസസ് അപ്പോൾ ഒബ്ജക്റ്റിനെ ആ രീതിയിൽ പ്രതിനിധീകരിക്കാം അത് ആ രീതിയിൽ പോലും പ്രതിനിധീകരിക്കാം അത് ആ രീതിയിലും അല്ലെങ്കിൽ നിരീക്ഷിക്കാവുന്ന മറ്റേതെങ്കിലും വസ്തുവിലും പ്രതിനിധീകരിക്കാം അതിനാൽ വയർഫ്രെയിം മോഡലുകൾ ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധാലുവായിരിക്കണം അതിനാൽ സർഫസ് നിർമ്മാണത്തിന്റെ കാര്യത്തിൽ എല്ലായ്പ്പോഴും അവ്യക്തതയുണ്ട് മാത്രമല്ല അത് വസ്തുവിന്റെ അളവുകളെക്കുറിച്ചും സർഫസ്നെകുറിച്ചും ഒന്നും നിർവചിക്കുന്നില്ല സാധാരണയായി അവ്യക്തത ഊഹിക്കാനോ വ്യാഖ്യാനിക്കാനോ പ്രയാസമാണ് കൂടാതെ രണ്ട് ഫേസ്കൾ തമ്മിൽ കൂടിച്ചേരുന്ന രേഖ അല്ലെങ്കിൽ കൂടിച്ചേരുന്ന മോഡലുകൾ പോലുള്ള കമ്പ്യൂട്ടേഷണൽ വിവരങ്ങൾ നിർണ്ണയിക്കാൻ അവർക്ക് കഴിവില്ല നിങ്ങൾക്ക് പരസ്പരം കൂടിച്ചേരുന്ന രണ്ട് മൂന്ന് മോഡലുകൾ ഉള്ളപ്പോൾ അവ ഈ വളവുകളെ പ്രതിനിധീകരിക്കുന്നു അടുപ്പം അല്പം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ മറ്റ് ഒബ്ജക്റ്റ് സർഫസ് മോഡലിലേക്ക് നോക്കാം അതിനാൽ മൂന്ന് ഇനങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി ഒരു വയർഫ്രെയിം മോഡൽ സർഫസ് മോഡലുകൾ സോളിഡ് മോഡലുകൾ അതിനാൽ ഇപ്പോൾ നമ്മൾ ഈ സർഫസ് മോഡലുകൾക്കായി പോകുന്നു ഒരു സർഫസ് മോഡൽ ഒരു വസ്തുവിന്റെ ചർമ്മത്തെ പ്രതിനിധീകരിക്കുന്നു ഈ തൂണുകൾക്ക് കട്ടിയോ മെറ്റീരിയലോ ഇല്ല സാധാരണയായി ഈ സർഫസ്കളെ നമ്മൾ ഗണിതശാസ്ത്രപരമായ ഫംഗ്ഷനുകൾ ഉപയോഗിച്ച് നിർവചിക്കുന്നു എന്തെങ്കിലും ഒരു സർഫസ്മായി നിർവചിക്കാൻ നമ്മൾ പാരാമെട്രിക് വ്യതിയാനം ഉപയോഗിക്കുന്നു കൂടാതെ ഈ സർഫസ് മോഡലുകൾ വയർഫ്രെയിം മോഡലുകളിൽ അടങ്ങിയിരിക്കുന്ന ഏതെങ്കിലും അവ്യക്തത അല്ലെങ്കിൽ അതുല്യത ഇല്ലാതാക്കുന്നു കൂടാതെ മികച്ച ദൃശ്യാവിഷ്കാരവും തർജമയും സർഫസ് മോഡലുകളിൽ മാത്രമേ സാധ്യമാകൂ കൂടാതെ ഈ നെറ്റ്വർക്കിൽ വസ്തുക്കൾ കൂടുതൽ യാഥാർത്ഥ്യബോധത്തോടെ കാണപ്പെടുന്നു ഉദാഹരണത്തിന് അച്ച് ഡിസൈനുകൾ പോലെയുള്ള കാര്യങ്ങൾ ഈ സർഫസ് മോഡലുകൾക്ക് എളുപ്പത്തിൽ നിർമ്മിക്കാൻ കഴിയും കപ്പലിൻ്റെ പള്ള വിമാനത്തിൻ്റെ ചട്ടക്കൂട് കാറിൻ്റെ ചട്ടക്കൂട് എന്നിവപോലുള്ള സങ്കീർണ്ണമായ സ്വതന്ത്ര രൂപത്തിലുള്ള സർഫസ്കൾ എന്നിവക്ക് നമുക്ക് ഈ സർഫസ് മോഡലുകൾ ഉപയോഗിക്കാം പരുക്കനെക്കുറിച്ചും നിറത്തെക്കുറിച്ചും പ്രതിഫലനത്തെക്കുറിച്ചും സർഫസ് മോഡലുകളിൽ നമ്മൾക്ക് ഇത് എളുപ്പത്തിൽ നൽകാനാകും വയർ മോഡലുകളുടെ ഈ ആശയം 1900 ഓടെ വന്നു അപ്പോൾ ആളുകൾ പരിമിതമായ വിവേചനാധികാരം നോക്കാനും സർഫസ്കളെ പ്രതിനിധീകരിക്കുന്നു സർഫസ്കളെ ബന്ധിപ്പിക്കാനും നോക്കുന്നു അത് തിരിച്ചു പിടിക്കാൻ വയർഫ്രെയിമുകൾ പോലുള്ള ഈ ഡോട്ടുകളുമായി പോകുന്നു 1930 40 കാലഘട്ടത്തിൽ ആളുകൾ സർഫസ് മോഡലുകൾ നോക്കാൻ തുടങ്ങി കാരണം അവർക്ക് വസ്തുക്കളിലെ ഡ്രാഗ് ലിഫ്റ്റ് മുതലായവ കൂടുതൽ താൽപ്പര്യമുണ്ട് ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ ഒരു വിമാനം കാണിക്കുന്നു സർഫസ് എന്തായിരിക്കണം എല്ലായ്പ്പോഴും ആന്തരികമായതിനാൽ പഴയ കാലങ്ങളിലെ വിമാനത്തിന് എല്ലായ്പ്പോഴും ഒരു ആന്തരിക ഘടനയുണ്ട് അതിൽ നിങ്ങൾ അതിനെ സർഫസ്കളാൽ മൂടും ഇപ്പോൾ ആ വിമാനത്തിൽ ആ സർഫസ് എങ്ങനെ ആക്കണം അതായത് ഒരാൾക്ക് ആ വസ്തുവിൽ കുറച്ച് ഡ്രാഗും കൂടുതൽ ലിഫ്റ്റും ഉണ്ടാകും കാരണം മുമ്പത്തെ നിർമ്മാണം സാധാരണ കോമ്പോസിറ്റ് വസ്തുക്കൾ ഉപയോഗിച്ചല്ല അതിനാൽ അവർ വസ്തുവിനെ ഭംഗിയായി രൂപഭേദം വരുത്തുകയും ആന്തരിക ചട്ടകൂടിൻ്റെ ഘടനയെ പിന്തുണയ്ക്കുകയും വേണം അതിനാൽ ഇത്തരത്തിലുള്ള പ്രക്രിയയെ രൂപഭേദം വരുത്തുന്നതിന് സർഫസ് വിവരങ്ങൾ ആവശ്യമാണ് കൂടാതെ 1940 കളിൽ മുഴുവൻ സർഫസ് മോഡലിംഗ് ആശയം വന്നു കൂടാതെ പാരാമെട്രിക് വ്യതിയാനങ്ങൾ ഉപയോഗിച്ച് അവർ കൂടുതൽ വികസിപ്പിച്ച രീതി പ്രത്യേകിച്ചും കൂൺസ് സർഫസിലൂടെ പിന്നീടുള്ള ക്ലാസുകളിൽ നമ്മൾ അതിനെ കുറിച്ച് പഠിക്കും ബെസിയർ സർഫസ്കൾ സ്പ്ലൈൻ സർഫസ്കൾ എന്നിങ്ങനെയുള്ള വ്യത്യസ്ത തരം സർഫസ്കളുണ്ട് ചില അർത്ഥത്തിൽ സർഫസ്കളുടെ വിഭജനത്തിന്റെ കാര്യത്തിൽ അവ്യക്തത ഈ കൂൺ സർഫസ്കൾ നീക്കംചെയ്യും അതിനാൽ വളവുകളെക്കുറിച്ചുള്ള പാരാമെട്രിക് വിവരങ്ങൾ നമ്മൾ ഉപയോഗിക്കും അതിനർത്ഥം ഒരു വളവുണ്ടാകാം മറ്റൊരു വളവുണ്ട് മറ്റൊരു വളവുണ്ട് മറ്റൊരു വളവുമുണ്ട് ഒരു സർഫസ് പോലെയുള്ള ഒന്ന് പ്രതിനിധീകരിക്കുന്നതിന് ഈ വളവുകളിൽ എങ്ങനെ ചേർക്കാം ഈ മുഴുവൻ സർഫസ് മോഡലിംഗും പാരാമെട്രിക് വ്യതിയാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വഴിയുണ്ട് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള സർഫസ് മോഡലിംഗ് ബുള്ളറ്റുകൾ പോലുള്ള ഷെല്ലുകൾക്കായി ഉപയോഗിക്കുന്നു അത് ആ ഷെല്ലിലോ പുറം ഷെല്ലുകളിലോ ഡോമിലോ കാണാൻ ആഗ്രഹിക്കുന്നു കാർ ബോഡി പാനലുകൾ വിമാനത്തിൻ്റെ ചട്ടക്കൂടുകൾ ഫാൻ ബ്ലേഡുകൾ വളഞ്ഞ ഫാൻ ബ്ലേഡുകൾ ഒരുപക്ഷേ വിൻഡ് ടർബൈൻ ബ്ലേഡുകൾ ഇത്തരത്തിലുള്ള സങ്കീർണ്ണമായ സർഫസ്കൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ നിർമ്മിക്കാമെന്നതിന് സർഫസ് മോഡലിംഗ് ആശയം ആവശ്യമാണ് കപ്പൽ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ അവ വ്യാപകമാണ് മറ്റൊന്ന് ഷൂ വ്യവസായങ്ങളും വളരെ ജനപ്രിയമാണ് നിങ്ങൾ മെക്കാനിക്കൽ വ്യവസായങ്ങളിലേക്കാണ് നോക്കുന്നതെങ്കിൽ ഫോർജിങ്ങിലും കാസ്റ്റിംഗ് പ്രവർത്തനങ്ങളിലും സാധാരണയായി ഈ സർഫസ് മോഡലിംഗ് തത്വങ്ങൾ ഉൾക്കൊള്ളുന്നു സാധാരണയായി പ്രചാരത്തിൽ കാണുന്ന ക്യാട് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ് അതുപോലെ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിംഗ് ഇത്തരത്തിലുള്ള ആശയങ്ങൾക്ക് സർഫസ് നിർമ്മാണം ആവശ്യമാണ് അത് നിർമ്മിക്കാൻ ലഭ്യമായ കമ്പ്യൂട്ടർ പാക്കേജുകൾ ഉണ്ട് ഈ സോഫ്റ്റ്വെയർ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നതാണ് നമ്മൾ പഠിക്കുന്നത് ആ സോഫ്റ്റ് വെയറിൻ്റെ പശ്ചാത്തലം അതിനാൽ ആദ്യം ആരംഭിക്കുന്നത് നമ്മൾ സ്പ്ലൈനുകൾ എന്ന് വിളിക്കുന്ന വളവുകളുടെ നിർമ്മാണത്തിലാണ് അതിൽ നിന്ന് 3 ഡി പ്രതലങ്ങൾ മെഷ് ചെയ്യുന്നു എനിക്ക് ഒരു കലം ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ആവശ്യമായ അവശ്യ വിവരങ്ങൾ ഒരു വളഞ്ഞ രേഖ പോലെയാണ്അതുപോലെ ഒരു ആക്സിസ് പോലെ എന്തെങ്കിലും ആവശ്യമാണ് ഈ മുഴുവൻ സ്പ്ലൈനും ഞാൻ ഇതിനെ ചുറ്റിപ്പറ്റിയാൽ ഒരു കപ്പ് നിർമ്മിക്കാനുള്ള അവസ്ഥയിലായിരിക്കും ഞാൻ ഇത് ഒരു സർഫസ് ആണ് 0 കനം ഉള്ളത് അതിനാൽ ഇത്തരത്തിലുള്ള സ്പ്ലൈനുകൾ ഉപയോഗിക്കുന്നത് അത് നിർമ്മിക്കാനുള്ള ഒരു സ്ഥാനത്ത് ആയിരിക്കും അതിനാൽ പോയിന്റുകൾ അടിസ്ഥാനമാക്കി നമ്മൾ നിർവചിക്കുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉണ്ടാകും അതിനാൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സോഫ്റ്റ്വെയർ നിങ്ങൾ സ്ക്രീനിൽ സ്പർശിക്കുമ്പോഴോ അല്ലെങ്കിൽ പോയിന്റിൽ ക്ലിക്കുചെയ്യുമ്പോഴോ നിങ്ങളുടെ മുൻഭാഗം ആ വിവരങ്ങൾ എടുത്ത് ആ പ്രോഗ്രാമിംഗിന്റെ പിൻഭാഗത്തേക്ക് അയയ്ക്കും അരികുകൾ വെർട്ടീസസ് യോജിപ്പിക്കുക ഒരു സ്പ്ലൈൻ പോലെ യോജിക്പ്പിക്കുക ഏത് ആക്സിസ് തിരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ ആ പോയിന്റിനെപറ്റി നിങ്ങളോട് ചോദിക്കും നിങ്ങൾ അത് തിരഞ്ഞെടുക്കുക അത് ഈ വസ്തുക്കളെ കറക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്നു അതിനാൽ അടുത്ത ക്ലാസുകളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലും മുന്നിലും ഉള്ള ധാരാളം വിവരങ്ങൾ ആയിരിക്കും സർഫസ് ധ്രുവങ്ങളും നിയന്ത്രണ പോയിന്റുകളും കൈകാര്യം ചെയ്യുന്നതിലൂടെ സർഫസിന്റെ നേരിട്ടുള്ള നിർമ്മാണമാണ് മറ്റൊരു രീതി പ്രത്യേകിച്ചും സർഫസ്കളെ പ്ലാനാർ പ്രതലങ്ങളായി തിരിച്ചിരിക്കുന്നു മറ്റൊന്ന് സിലിണ്ടർ അല്ലെങ്കിൽ കോണാകൃതിയിലുള്ള സർഫസ്കളും ശിൽപങ്ങളുള്ള പ്രതലങ്ങളുമാണ് ഇത് ഒരു പ്ലാനർ സർഫസ് ആണെങ്കിൽപിൻഭാഗം അത് എങ്ങനെ പ്രവർത്തിക്കുന്നു പി 0 പി 1 പി 2 എന്നീ മൂന്ന് പോയിന്റുകളിലൂടെ കടന്നുപോകുന്ന ഒരു സർഫസ് നൽകിയിരിക്കുന്നു നിങ്ങൾ കമ്പ്യൂട്ടറിൽ സർഫസ് നിർമ്മിക്കുമ്പോൾ ഒരുപക്ഷേ നമ്മൾ പോയിന്റുകൾ പി 1 പി 2 പി 3 നൽകേണ്ടി വരും എക്സ് വൈ ഇസഡ് കോർഡിനേറ്റുകൾ ഒന്നുകിൽ നമ്മൾ അത് ടൈപ്പ് ചെയ്യുകയോ സ്റ്റൈലസ് സ്ക്രീനിൽ സ്പർശിക്കുകയോ അല്ലെങ്കിൽ ആ സർഫസിൽ ഒരു മൌസ് ക്ലിക്ക് ചെയ്യുകയോ ചെയ്യും അവിടെ നമ്മൾ എക്സ് വൈ ഇസഡ് വിവരങ്ങൾ നൽകും നമ്മൾക്ക് ആ എക്സ് വൈ ഇസഡ് വിവരങ്ങൾ ലഭിച്ചുകഴിഞ്ഞാൽ ഇത് പശ്ചാത്തലത്തിൽ യു വി ന്റെ ഒരു പാരാമെട്രിക് വ്യതിയാനം പി നിർമ്മിക്കും ആദ്യത്തെ പോയിന്റ് പി 0 രണ്ടാമത്തെ പോയിന്റ് പി 1 മൂന്നാം പോയിന്റ് പി 2 എന്നിവയുടെ വിവരങ്ങൾ ഉപയോഗിച്ച് ആ സർഫസിലെ ഏത് പോയിന്റും ഇന്റർപോളേറ്റ് ചെയ്യാൻ കഴിയും കാരണം ഈ വെർടീസസിൽ നിന്ന് സർഫസ് നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ വെർടീസസ് ഇല്ലെങ്കിൽ ഈ മൂന്ന് പോയിന്റുകളിലൂടെ കടന്നുപോകുന്ന ഒരു സർഫസിൻ്റെ അത്തരം പാരാമെട്രിക് വ്യതിയാനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയും അങ്ങനെ ആഗ്രഹിക്കുന്നു കാരണം ഒരു സർഫസ് ആയതിനാൽ അതിന് വളഞ്ഞ ആകൃതി ഉണ്ടായിരിക്കാം അതിനാൽ സാധാരണ വെക്ടറുകളും പ്രധാനമാണ് ഇത് ഒരു പ്ലാനാർ തരത്തിലുള്ള സർഫസ് ആയിരിക്കാം അത് അല്പം വളഞ്ഞ പ്രതലങ്ങളോ അല്ലെങ്കിൽ ആ സർഫസ്ന്റെ ഓറിയന്റേഷനോ ആവശ്യമാണ് അതിനാൽസർഫസിൻ്റെ നോർമലും ആവശ്യമാണ്എന്നാൽ നമ്മൾക്ക് മൂന്ന് പോയിന്റുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ താൽപ്പര്യമുള്ള സർഫസിൻ്റെ പൂർണ്ണ വിവരങ്ങൾ നമ്മൾക്കറിയില്ല അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ പി 1 പി 0 എന്നിവയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വീണ്ടും സാധാരണ വെക്റ്റർ ഉപയോഗിക്കുന്നു പി 2 പി 0 പോയിന്റുകളുള്ള ഒരു ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്നു അതുപോലെ പി 1 പി 0 പി 2 പി 0 ക്രോസ് പ്രൊഡക്റ്റ് നമ്മൾ നിർമ്മിക്കും അത് ഉപയോഗിക്കുന്നതിലൂടെ സർഫസിലേക്കുള്ള നോർമൽ നിർമ്മിക്കാൻ നമ്മൾക്കാകും ആ കളർ മാപ്പിംഗിനെ അടിസ്ഥാനമാക്കി നമ്മൾ ശരിയായി ചെയ്യും കൂടാതെ അടുത്ത ക്ലാസുകളിൽ സർഫസ് മോഡലുകളെക്കുറിച്ചും വ്യത്യസ്ത തരം സ്പ്ലൈൻ സർഫസ്കളെക്കുറിച്ചും നമ്മൾ കൂടുതലറിയും